അഭിവാദ്യങ്ങൾ മൊഡ്യൂൾ 1 ന്റെ യൂണിറ്റ് 16 ലേക്ക് സ്വാഗതം ഈ യൂണിറ്റ് കോഴ്സ് ഔട്ട്കംസ് അഥവാ കോഴ്സ് ഫലങ്ങൾ എഴുതുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിന്റെ രണ്ട് യൂണിറ്റുകൾ നമുക്ക് ഉണ്ടാകും മുമ്പത്തെ യൂണിറ്റിൽ ഔട്ട്കംസ് അസ്സെസ്സ്മെന്റ് ഇൻസ്ട്രക്ഷൻ എന്നിവയ്ക്കിടയിൽ വിന്യാസം നേടുന്നതിൽ ടാക്സോണമി ടേബിളിന്റെ പങ്ക് മനസിലാക്കാൻ നാം ശ്രമിച്ചു ടാക്സോണമി ടേബിൾ ശരിക്കും കോഴ്സ് ഔട്ട്കംസ് എങ്ങനെ എഴുതാമെന്ന് നിങ്ങളോട് പറയുന്നില്ല പക്ഷേ കോഴ്സ് ഫലങ്ങൾ എഴുതിയത് അവയുടെ വിന്യാസം ട്യൂട്ടോറിംഗ് മുതലായവ നോക്കാനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു ഇപ്പോൾ നിലവിലുള്ള യൂണിറ്റ് M1U16 ഒരു കോഴ്സിന്റെ ഔട്ട്കംസ് എഴുതുകയും അവയെ ടാക്സോണമി ടേബിളിൽ കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഫലം ഒരു കോഴ്സിനായി ഫലങ്ങൾ എഴുതുന്നതുപോലെയാണ് ഇത് ഇതാണ് പോയിന്റ് അല്ലെങ്കിൽ മൊഡ്യൂൾ 1 ന്റെ പ്രധാന ലക്ഷ്യം ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അഥവാ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഔട്ട്കംസ് എങ്ങനെ എഴുതാം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ ബിരുദധാരികൾ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം പ്രോഗ്രാം ഔട്ട്കംസ് നേടേണ്ടതുണ്ട് കൂടാതെ പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്ന സർവകലാശാലയോ വകുപ്പോ തിരിച്ചറിഞ്ഞ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് അതായത് ഒരു സ്വയംഭരണ സ്ഥാപനത്തിന്റെ കാര്യത്തിൽ നിർദിഷ്ട വകുപ്പ് അല്ലെങ്കിൽ അതിന്റെ ബോർഡ് ഓഫ് സ്റ്റഡീസ് തീരുമാനിക്കും അതേസമയം സ്വയംഭരണേതര സ്ഥാപനത്തിൽ പ്രോഗ്രാം സ്പെസിഫിക് ഔട്ട്കംസ് തിരിച്ചറിയുന്നത് സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ആണ് പിഒകളും പിഎസ്ഒകളും എന്ന് നാം വിളിക്കുന്നവ കോഴ്സുകൾ പ്രോജക്ടുകൾ കോ കരിക്കുലർ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുന്നു ഇപ്പോൾ പിഒകളും പിഎസ്ഒകളും പ്രോഗ്രാം വഴി നേടേണ്ടതുണ്ട് അവ എങ്ങനെ നേടാം കോഴ്സുകൾ പ്രോജക്ടുകൾ ചിലപ്പോൾ കോ കരിക്കുലർ പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയാണ് നമുക്ക് ലഭ്യമായ പ്രവർത്തനങ്ങൾ അവ അവിടെയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഔപചാരികമായി മാത്രമേ ഉൾപ്പെടുത്താൻ കഴിയൂ പിഒകളും പിഎസ്ഒകളും ശരിയായി ചെയ്തുവെങ്കിൽ അവയുടെ നേട്ടം കണക്കാക്കാൻ ശ്രമിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ പ്രകടനം ശരിയായി വിലയിരുത്തപ്പെടുന്നു ഇത് വിലയിരുത്തിയില്ലെങ്കിൽ ചില പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മാത്രമേ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുള്ളൂവെങ്കിൽ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടത്തിന് നേരിട്ട് സംഭാവന ചെയ്യുന്നുവെന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള കോഴ്സുകളെ വിശാലമായി കോർ കോഴ്സുകളിലേക്കും എലെക്റ്റീവ്സ്ലേക്കും വേർതിരിച്ചിരിക്കുന്നു നിങ്ങൾ എലക്ടീവ്കളെ ഓപ്പൺ എലക്ടീവ് പ്രൊഫഷണൽ എലക്ടീവ് എന്നിങ്ങനെ വിഭജിക്കുന്നു പക്ഷേ അവ എലക്ടീവ്കളാണ് കോർ കോഴ്സുകളെ വിശാലമായി രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അതിലൊന്നാണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സയൻസ് കോഴ്സുകൾ ബേസിക് സയൻസസ് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസ് മാനേജുമെന്റ് എന്നിവയാണ് മറ്റുള്ളവ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള കോഴ്സുകൾക്ക് ഈ നാല് ക്ലാസുകളിൽ ഏതെങ്കിലും ഒന്ന് വരാം എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന കോർ കോഴ്സ് പ്രോജക്ടിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പിഒകളും പിഎസ്ഒകളും നേടേണ്ടതുണ്ട് കോഴ്സ് ഫലങ്ങൾ എഴുതുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പിഒകളും പിഎസ്ഒകളും അവരുടെ നേട്ടം കണക്കാക്കേണ്ടത് പ്രധാന കോഴ്സുകളിലൂടെയും എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന പ്രോജക്ടുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മാത്രമാണ് എലക്ടീവ് എന്നതിന്റെ പ്രധാന പ്രശ്നം ഒരേ എലക്ടീവ് പ്രോഗ്രാമിലെ എല്ലാ വിദ്യാർത്ഥികളും എടുക്കണം എന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കഴിയില്ല കൂടാതെ പല സ്ഥലങ്ങളിലും പല കോളേജുകളിലും ഫാക്കൽറ്റികളിലും ഇതിൽ അൽപ്പം നിരാശ തോന്നുന്നു കാരണം ഒരു പ്രോഗ്രാമിന്റെ 18 മുതൽ 24 വരെ ക്രെഡിറ്റുകൾ എലക്ടീവ്സ് ഉൾപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടം കണക്കാക്കുന്നതിൽ നാം എന്ത് കൊണ്ടാണ് അതിനെ ഉൾപെടുത്താത്തത് എന്റെ എലക്ടീവ്സ് നന്നായി ചെയ്യുന്നതിനാലും അക്രഡിറ്റേഷൻ പ്രക്രിയയിൽ അവ കണക്കാക്കപ്പെടാത്തതിനാലും എനിക്ക് മാർക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് പൊതുവായ വികാരം എലക്ടീവ്സിൽ നിങ്ങൾ ചെയ്യുന്നതെന്തും നിങ്ങൾ എൻബിഎ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് വിളിക്കുന്നതിനേക്കാളും മുകളിലാണ് അതിനാൽ എൻബിഎ അക്രഡിറ്റേഷൻ പ്രക്രിയ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും കുറഞ്ഞ ആവശ്യകതയെയാണ് കാണുന്നത് അല്ലാതെ പരമാവധി ആവശ്യകതയല്ല നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഏത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്റെയും പ്രധാന ഭാഗമാണ് കോഴ്സുകൾ ഇന്ന് 170 മുതൽ 175 വരെ ക്രെഡിറ്റുകൾ ഒരു പ്രോഗ്രാമിന്റെ ക്രെഡിറ്റ് ലോഡാണെന്ന് കരുതുക അതിൽ 150 വരെ ക്രെഡിറ്റുകൾ കോഴ്സുകളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കാം 140 ക്രെഡിറ്റുകൾ ഔപചാരിക കോഴ്സുകൾ ആയിരിക്കും എന്ന് നമുക്ക് പറയാം അതായത് നിലവിൽ ഈ കോഴ്സുകൾ 3 0 0 3 എന്നപോലെ ഒന്നിലധികം ഫോർമാറ്റുകളിൽ വാഗ്ദാനം ചെയ്യുന്നു ഇത് ആഴ്ചയിലെ പ്രഭാഷണങ്ങളുടെ എണ്ണമായി കണക്കാക്കാം രണ്ടാമത്തെ അക്കം ട്യൂട്ടോറിയലിനായി ആഴ്ചയിലെ മണിക്കൂറുകളെ കാണിക്കുന്നു മൂന്നാമത്തെ അക്കം ആഴ്ചയിൽ ലബോറട്ടറി സെഷനുകളുടെ എണ്ണത്തെ പ്രധിനിധീകരിക്കുന്നു സാധാരണയായി ലബോറട്ടറി സെഷൻ 2 മണിക്കൂറായി കണക്കാക്കുന്നു അതിനാൽ 2 മണിക്കൂർ ലബോറട്ടറി 1 ക്രെഡിറ്റ് ഉൾക്കൊള്ളുന്നു ഞാൻ 3 മണിക്കൂർ ഇത് ചെയ്യുന്നുവെന്ന് പറഞ്ഞ് 1 5 ക്രെഡിറ്റ് പോലുള്ള നമ്പറുകൾ നാം ഉപയോഗിക്കുന്നില്ല അതിനാൽ നിങ്ങൾ ഇത് 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ അത് 2 ലബോറട്ടറി ക്രെഡിറ്റുകൾ ആയി മാറും അതിനാൽ നിങ്ങൾക്ക് വിവിധ ഫോർമാറ്റുകൾ ലഭ്യമാണ് പ്രത്യേകിച്ചും സ്വയംഭരണ കോളേജുകൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുത്താം നിങ്ങൾക്ക് 3 0 1 ഉണ്ടായിരിക്കാം അതായത് ആഴ്ചയിൽ 3 പ്രഭാഷണ സമയവും 1 ലബോറട്ടറി സെഷനും അല്ലെങ്കിൽ 3 1 0 അല്ലെങ്കിൽ 4 0 0 നിങ്ങൾക്ക് 2 0 0 2 0 1 ആകാം വിഷയത്തിന്റെ വിശാലത മറയ്ക്കുന്നതിന് ചെറിയ എണ്ണം ക്രെഡിറ്റ് കോഴ്സുകൾ പ്രധാനമായും ഉപയോഗിക്കാം ഉദാഹരണത്തിന് ആരെങ്കിലും ഒരു പ്രത്യേക വശത്തെക്കുറിച്ച് പരിചയപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു പൂർണ്ണമായ 3 ക്രെഡിറ്റ് കോഴ്സ് നൽകേണ്ടതില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ക്രെഡിറ്റ് കോഴ്സും നടത്താം അതിനാൽ നിങ്ങൾക്ക് 2 0 2 0 0 1 ലബോറട്ടറി ഒരു ഒറ്റപ്പെട്ട കോഴ്സായിരിക്കുമ്പോൾ ഇത് വളരെ സാധാരണമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 0 2 അല്ലെങ്കിൽ 1 0 1 ക്രെഡിറ്റുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് വിശാലമായ കോഴ്സുകൾ ഉണ്ട് നിങ്ങൾ കോഴ്സ് ഔട്ട്കംസ് എഴുതുമ്പോൾ അത് അങ്ങനെയായിരിക്കണം ഒരു ലബോറട്ടറി സംയോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഫലങ്ങൾ ലബോറട്ടറി പ്രവർത്തനത്തെയും പ്രതിഫലിപ്പിക്കും നാം ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കോഴ്സിന്റെ അവസാനം അവർക്ക് എന്ത് ചെയ്യാനാകുമെന്ന് വ്യക്തമാകുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നു അതിനർത്ഥം പ്രസ്താവിച്ചിരിക്കുന്നു എന്നാണ് ഒരു കോഴ്സിന്റെ അവസാനം അവർക്ക് ചെയ്യാൻ കഴിയുന്നത് കോഴ്സ് ഔട്ട്കംസിന്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുന്നു അവിടെയാണ് അത് വരുന്നത് അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുമായി ഒരു വിന്യാസമാണ് അസ്സെസ്സ്മെന്റ് കോഴ്സ് ഔട്ട്കംസുമായുള്ള വിന്യാസത്തിലെ അസ്സെസ്സ്മെന്റ് ആണ് അത് മുമ്പത്തെ യൂണിറ്റിൽ നാം ഇത് വിശദീകരിച്ചു വിന്യാസം എന്ന് വ്യാഖ്യാനിക്കുന്നത് ടാക്സോണമി പട്ടികയുടെ ഒരേ സെല്ലിൽ കോഴ്സ് ഔട്ട്കംസ് അസ്സെസ്സ്മെന്റ് എന്നിവ ഉള്ളതിനാലാണ് അത് തികഞ്ഞ വിന്യാസമാണ് കോഴ്സ് ഫലത്തിന്റെ വൈജ്ഞാനിക നിലയേക്കാൾ ഒരു വൈജ്ഞാനിക നില കുറവാണെങ്കിൽ ഇത് സ്വീകാര്യമാണ് പക്ഷേ വിന്യാസം കുറവാണ് അതുപോലെ ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് രൂപകൽപ്പന ചെയ്യുകയും അവ നേടാൻ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം നിർദ്ദേശവും വിലയിരുത്തലും കോഴ്സ് ഫലങ്ങളും തമ്മിലുള്ള വിന്യാസം അതിനാൽ നിങ്ങൾക്ക് നല്ല കോഴ്സ് ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കുന്നു വിദ്യാർത്ഥികൾക്ക് എന്തുചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട് കൂടാതെ അസ്സെസ്സ്മെന്റും ഇൻസ്ട്രക്ഷനും കോഴ്സ് ഔട്ട്കംസുമായി പൊരുത്തപ്പെടുമ്പോൾ ഒരു ടാക്സോണമി ടേബിൾ എന്ന് നാം വിളിക്കുന്നതിലൂടെ കോഴ്സ് ഔട്ട്കംസും വിന്യാസവും അതാണ് ഇപ്പോൾ ഔപചാരികമായി നമുക്ക് കോഴ്സ് ഔട്ട്കംസിലേക്കു വരാം ഒരു കോഴ്സിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നതാണ് കോഴ്സ് ഔട്ട്കംസ് നാം ഇത് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ആട്രിബ്യൂട്ടുകൾ കഴിവുകൾ അറിവ് എന്നിവയുൾപ്പെടെയുള്ള ഒരു ഫലപ്രദമായ കഴിവാണ് ഇത് ഇവിടെയാണ് നിങ്ങൾ ആട്രിബ്യൂട്ടുകൾ ഉൾപ്പെടുത്തുന്നത് ഈ ആട്രിബ്യൂട്ടുകളുടെ പ്രസ്താവന നിങ്ങൾ അഫക്റ്റീവ് ഡൊമെയ്ൻ എന്ന് വിളിക്കുന്നതിനു കീഴിലായിരിക്കാം പൂർണ്ണമായും തിരിച്ചറിഞ്ഞ ചില പ്രവർത്തനങ്ങൾ അഫക്റ്റീവായി നടത്താനുള്ള ഒരു കഴിവാണ് ഇത് CO യുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അത് അളക്കാവുന്നതായിരിക്കണം അവ്യക്തമായ ഒരു ഉദ്ദേശ്യത്തോടെ എനിക്ക് അവ്യക്തമായ ഒരു പ്രസ്താവന എഴുതാൻ കഴിയില്ല അത് വളരെ വ്യക്തമായിരിക്കണം ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ ഒരു കോഴ്സ് ഔട്ട്കം നോക്കുന്നു അത് അളക്കാവുന്നതായിരിക്കണം ശരി കാര്യങ്ങൾ അളക്കാൻ കഴിയാത്തതും കാര്യങ്ങൾ അളക്കാനാകാത്തതുമായ ധാരാളം ഉദാഹരണങ്ങൾ നമ്മൾ കാണും സിഒ പ്രസ്താവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് മെഷറബിലിറ്റി ഇതിന് കുറച്ച് പരിശീലനം ആവശ്യമാണ് കാരണം പല അധ്യാപകരും അവരുടെ പഴയ ശീലങ്ങൾ കാരണം ഒരു പ്രസ്താവനയിലേക്ക് വഴുതിവീഴാം അവരുടെ ഉദ്ദേശ്യം കുഴപ്പമില്ല പക്ഷേ അത് അവതരിപ്പിക്കുമ്പോൾ പ്രസ്താവന എഴുതിയ രീതിയിൽ നിന്ന് ആ ഉദ്ദേശ്യം വ്യക്തമല്ല ശരി ഇത് ഒരു പ്രധാന വശമാണ് മാത്രമല്ല ഇത് പരിശീലനത്തിലൂടെ മാത്രമേ ആർജിക്കാൻ പറ്റൂ ഇപ്പോൾ ലേർണിംഗ് ഔട്ട്കംസ് എന്നത് ഇന്ന് നാം വിളിക്കുന്നതല്ല എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിലെ കോഴ്സ് ഔട്ട്കംസ് എന്നാണ് നാം ഇതിനെ വിളിക്കുന്നത് എന്നാൽ വിശാലമായി ലേർണിംഗ് ഔട്ട്കംസ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജെക്റ്റീവ്സ് ' എന്നിവ 50 വർഷത്തിലധികമോ 60 വർഷത്തിലധികമോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സാഹിത്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ മാഗർ 1962 അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകം വന്ന സമയത്ത് ഒരു ലേർണിംഗ് ഔട്ട്കം എങ്ങനെ എഴുതാമെന്ന് നിർവചിക്കാനുള്ള ഒരു സംവിധാനം അവർ ഇതിനകം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജെക്റ്റീവ് എന്ന് വിളിച്ചു രണ്ടും ഒരേപോലെയാണ് ഇപ്പോൾ മാഗർ ശൈലിയിലുള്ള എഴുത്തിനു 3 ഘടകങ്ങൾ ഉണ്ട് ആദ്യത്തേത് പെർഫോമൻസ് ആണ് ഔട്ട്കം സ്റ്റേറ്റ്മെൻറ് എല്ലായ്പ്പോഴും പഠിതാവിന് എന്തുചെയ്യാനാകുമെന്ന് പറയണം അതിനാൽ അത് 'ഒരു ഔട്ട്കം സ്റ്റേറ്റ്മെൻറ് എഴുതുക' എന്ന് പറയുന്നതുപോലെ ആണ് കാരണം അത് വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കണം എന്നതൊഴിച്ചാൽ കൂടുതൽ പറയുന്നില്ല തുടർന്ന് 'കണ്ടീഷൻ ' വരുന്നു പെർഫോമൻസ് സംഭവിക്കേണ്ട പ്രധാന കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഔട്ട്കംസ് വിവരിക്കുന്നു ചില കണ്ടീഷൻസിൽ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണം ഉദാഹരണത്തിന് ഒരു പ്രത്യേക നടപടിക്രമം ഉപയോഗിച്ച് നിങ്ങൾ പ്രശ്നം പരിഹരിക്കണം അതിനർത്ഥം വിദ്യാർത്ഥി ഉപയോഗിക്കാൻ പ്രതീക്ഷിക്കുന്ന നടപടിക്രമമാണ് കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്തെങ്കിലും നിർവഹിക്കാനോ ഒരു പ്രത്യേക ഉപകരണം ഉപയോഗിച്ച് ചില വേരിയബിളിന്റെ ചില മൂല്യങ്ങൾ നിർണ്ണയിക്കാനോ ആകാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി വ്യക്തമാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തെങ്കിലും അനുകരിക്കുക അതിനാൽ മുൻകൂട്ടി വ്യക്തമാക്കിയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രഖ്യാപിത ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഒരു നടപടിക്രമം അവ കണ്ടീഷൻസ്' ആയി മാറുന്നു ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മാഗർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഒരു കണ്ടീഷനും ഇല്ലെങ്കിൽ ഔട്ട്കംമിന്റെ രണ്ടാം ഭാഗം ഓപ്ഷണലാണ് അതുപോലെ തന്നെയാണ് ക്രൈറ്റീരിയൻ അഥവാ മാനദണ്ഡം വീണ്ടും സാധ്യമാകുമ്പോഴെല്ലാം ഒരു ഫലം സ്വീകാര്യമായ പ്രകടനത്തിന്റെ ക്രൈറ്റീരിയൻ അഥവാ മാനദണ്ഡം വിവരിക്കുന്നു സ്വീകാര്യമെന്ന് കണക്കാക്കുന്നതിന് പഠിതാവ് എത്ര നന്നായി പ്രവർത്തിക്കണമെന്ന് വിവരിക്കുന്നു അതിനാൽ സംഗീതം അല്ലെങ്കിൽ സ്പോർട്സ് പോലുള്ള ചില കോഴ്സുകളിൽ സ്വീകാര്യതയുടെ ക്രൈറ്റീരിയൻ വളരെ വ്യക്തമാണ് ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മിക്കപ്പോഴും എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ അവ ഓപ്ഷണലായി മാറുന്നു ലബോറട്ടറി പരീക്ഷണം നടത്തേണ്ട സ്ഥലവും ചില കൃത്യതയോടെ നിങ്ങൾ ഫലങ്ങൾ നേടേണ്ട സ്ഥലവും ഒഴികെ കൃത്യതയുടെ ആവശ്യകത ക്രൈറ്റീരിയൻ ആയി മാറുന്നു സാധ്യമാകുമ്പോഴെല്ലാം പ്രസ്താവനയ്ക്ക് യോഗ്യതയുണ്ട് അതിനാൽ എന്ത് സംഭവിക്കുന്നു കണ്ടീഷൻ ക്രൈറ്റീരിയൻ എന്നിവ നിലവിലില്ലെങ്കിൽ അവ ഓപ്ഷണൽ ഘടകങ്ങളാണ് മാഗെർ പറഞ്ഞത് അനുസരിച്ച് നിലനിൽക്കുന്ന ഒരേയൊരു ഭാഗം പെർഫോമൻസാണ് അതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ലേർണിംഗ് ഔട്ട്കംമിന്റെ മറ്റൊരു വാക്ക് പോലെയാണ് ഇപ്പോൾ ആൻഡേഴ്സൺ ബ്ലൂം അനുസരിച്ച് അവർ 3 വശങ്ങൾ നൽകി ഏതെങ്കിലും കോഴ്സ് ഫലമോ പഠന ഫലമോ നിങ്ങൾക്ക് പൊതുവായ ഒരു കാണ്ഡംമുണ്ടെന്ന് അവർ പറയുന്നു "സ്ടുടെന്റ്റ് ഷുഡ് ബി ഏബിൾ ടു അഥവാ വിദ്യാർത്ഥിക്ക് കഴിയണം" എല്ലാ കോഴ്സ് ഫല പ്രസ്താവനയ്ക്കും മുന്നിൽ നിങ്ങൾ ആ കാണ്ഡം എഴുതേണ്ടതില്ല 'സ്ടുടെന്റ്റ് ഷുഡ് ബി ഏബിൾ ടു Student should be able to' എന്ന് നിങ്ങൾ മുകളിൽ എഴുതുകയോ കോഴ്സ് ഔട്ട്കംസിനു ചുവടെ എഴുതുകയോ ചെയ്താൽ മതി അത് ചേർത്ത് ഏതൊരു ഫലവും ഒരുമിച്ച് വായിക്കാൻ കഴിയും ശരി ഈ കാണ്ഡത്തിന് ശേഷം ഒരു ക്രിയാപദവും വാക്യത്തിന്റെ ഒബ്ജക്റ്റും ഉണ്ടാകും അതിനാൽ ഇവയാണ് ഉപയോഗിക്കുന്ന പടങ്ങൾ റിമെംബർ അണ്ടർസ്റ്റാൻഡ് അപ്ലൈ അനലൈസ് എവാല്യൂവേറ്റ് കൂടാതെ ക്രീയേറ്റ് എന്നിങ്ങനെയുള്ള ഏതെങ്കിലും വൈജ്ഞാനിക തലങ്ങളിൽ നിന്നുള്ള മാനസിക പ്രക്രിയയെ ക്രിയാപദം പറയുന്നു ആറ് കോഗ്നിറ്റീവ് ലെവലുകൾ അല്ലെങ്കിൽ ആറ് കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ ഒരു കൂട്ടം ആക്ഷൻ ക്രിയകളാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞങ്ങൾ ഇതിനകം ടാക്സോണമിയിൽ കണ്ടു ചില പ്രവർത്തന ക്രിയകൾ രണ്ടിനുമിടയിൽ പൊതുവായതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം കാരണം അണ്ടർസ്റ്റാൻഡ് അനലൈസ് എന്നിവയ്ക്ക് ഇടയിൽ നേർത്ത വര വരയ്ക്കുന്നത് ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് അതിനാൽ ഒന്നോ അതിലധികമോ വൈജ്ഞാനിക തലങ്ങളിൽ പൊതുവായ ചില വാക്കുകൾ നാം കണ്ടെത്തിയേക്കാം മൂന്നാമത്തെ ഭാഗം വാക്യത്തിന്റെ ഒബ്ജക്റ്റ് അറിവിന്റെ തരം പറയുന്നു ആൻഡേഴ്സണും ബ്ലൂമും പൊതുവായ നാല് വിജ്ഞാന വിഭാഗങ്ങളെ മാത്രമേ തിരിച്ചറിയുകയുള്ളൂ അതിനാൽ ആൻഡേഴ്സണും ബ്ലൂമും അനുസരിച്ച് കോഴ്സ് ഫലത്തിന്റെ മൂന്നാം ഭാഗത്തിന് ഒരു ക്രിയാപദവും അറിവിന്റെ തരവും ഉണ്ടാകും അതിനാൽ നാം ഇവ രണ്ടും മാഗർ ശൈലിയും ആൻഡേഴ്സൺ ബ്ലൂമിന്റെ പദസമുച്ചയവും ഒബ്ജക്റ്റും സമന്വയിപ്പിക്കുന്നു ലേർണിംഗ് ഔട്ട്കംസിനായി നാം ഒരു ഘടന നിർദ്ദേശിക്കുന്നു കണ്ടീഷൻ പിന്നെ ക്രൈറ്റീരിയൻ എന്നിവയുടെ ഓപ്ഷണാലിറ്റി നമ്മൾ നിലനിർത്തുന്നു അതിനാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഓപ്ഷണാലിറ്റി നിലനിർത്തുന്നു മറ്റൊന്ന് നിർദ്ദിഷ്ട ഘടന പ്രസ്താവനയാണ് അത് കോഗ്നിറ്റീവ് അഫക്റ്റീവ് അല്ലെങ്കിൽ സൈക്കോമോട്ടർ ഡൊമെയ്നുകളിൽ ആകാം അതിൽ ആക്ഷൻ നോലെഡ്ജ് കണ്ടീഷൻ പിന്നെ ക്രൈറ്റീരിയൻ എന്നിവ അടങ്ങിയിരിക്കുന്നു നിർദ്ദിഷ്ട ഘടനയുടെ നാല് ഘടകങ്ങളുണ്ട് അവയിൽ രണ്ടെണ്ണം ഓപ്ഷണലാണ് ഒരു CO പ്രസ്താവനയുടെ ഘടന നമുക്ക് നോക്കാം ആക്ഷൻ പഠിതാവ് ചെയ്യേണ്ട കോഗ്നിറ്റീവ് എഫക്റ്റീവ് സൈക്കോമോട്ടർ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്നു ഒരു ആക്ഷനെ ഒരു ക്രിയാപദം സൂചിപ്പിക്കുന്നു ഇടയ്ക്കിടെ രണ്ട് ബന്ധപ്പെട്ട വിജ്ഞാന പ്രക്രിയയെയോ പ്രക്രിയകളെയോ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇത് ഇതാണ് മാത്രമല്ല ഞങ്ങൾ അഫക്റ്റീവ് സൈക്കോമോട്ടോർ പ്രവർത്തനം നോക്കുകയുമില്ല ഞങ്ങൾ നേരത്തെ അവതരിപ്പിച്ചതുപോലെ അഫക്റ്റീവ് സൈക്കോമോട്ടർ ഡൊമെയ്നുകളിൽ തിരിച്ചറിഞ്ഞ പ്രവർത്തന ക്രിയകളും ഉണ്ട് എന്നാൽ നമ്മുടെ ശ്രദ്ധ ഇപ്പോൾ കോഗ്നിറ്റീവ് പ്രവർത്തനത്തിലാണ് നോലെഡ്ജ് എന്നത് 4 അല്ലെങ്കിൽ 8 വിജ്ഞാന വിഭാഗങ്ങളിൽ ഒന്നോ അതിലധികമോ വിജ്ഞാന നിർദ്ദിഷ്ട അറിവിനെ പ്രതിനിധീകരിക്കുന്നു അത് പൊതുവായ വിഭാഗങ്ങളാണെങ്കിൽ നമുക്ക് 4 എണ്ണം ഉണ്ട് അതേസമയം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നാം 4 എണ്ണം കൂടി ചേർക്കുന്നു അത് 8 വിഭാഗങ്ങൾ ഉള്ള അറിവായി മാറുന്നു പഠിതാവ് പിന്തുടരാൻ പ്രതീക്ഷിക്കുന്ന പ്രക്രിയയെ അല്ലെങ്കിൽ പ്രവർത്തനം നിർവ്വഹിക്കുന്ന അവസ്ഥയെ കണ്ടീഷൻ പ്രതിനിധീകരിക്കുന്നു ഇത് ഒരു CO സ്റ്റേറ്റ്മെന്റിന്റെ ഓപ്ഷണൽ ഘടകമാണ് പ്രവർത്തനം നിർവ്വഹിക്കുന്നതിന്റെ സ്വീകാര്യത നിലയെ വ്യക്തമാക്കുന്ന പാരാമീറ്ററുകളെ ക്രൈറ്റീരിയൻ പ്രതിനിധീകരിക്കുന്നു ഇതും ഒരു ഓപ്ഷണൽ ഘടകമാണ് ഇതാണ് നിങ്ങൾക്കുള്ളത് വീണ്ടും ആവർത്തിക്കാൻ സിഒ പ്രസ്താവനയ്ക്ക് നാല് ഘടകങ്ങൾ ഉണ്ടായിരിക്കാം അതിൽ രണ്ടെണ്ണം നിർബന്ധമാണ് രണ്ടെണ്ണം ഓപ്ഷണൽ ആണ് നിർബന്ധിത ഘടകങ്ങൾ ആക്ഷൻ നോലെഡ്ജ് കനൌലെഡ്ജ് എന്നിവയും ഓപ്ഷണൽ ഘടകങ്ങൾ കണ്ടീഷൻ പിന്നെ ക്രൈറ്റീരിയൻ എന്നിവയുമാണ് ഇവ എഴുതിയത് നോക്കുമ്പോൾ ഇപ്പോൾ ലോകമെമ്പാടും ഒരു ചെറിയ വിവാദമുണ്ടാകാം ചില സന്ദർഭങ്ങളിൽ അവർ ഒന്നിലധികം പ്രവർത്തന ക്രിയകൾ ഉപയോഗിച്ചു ചിലപ്പോൾ രണ്ട് പ്രധാനമായും ഒന്ന് അതിനാൽ ഒന്നിലധികം പ്രവർത്തന ക്രിയകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മുടെ നിലവിലെ അവസ്ഥ നിങ്ങൾ എന്തെങ്കിലും നന്നായി എഴുതുകയാണെങ്കിൽ ഒരു പ്രവർത്തന ക്രിയയ്ക്ക് മിക്ക സാഹചര്യങ്ങളും പരിപാലിക്കാൻ കഴിയും ഇടയ്ക്കിടെ നിങ്ങൾക്ക് രണ്ട് പ്രവർത്തന ക്രിയകൾ ആവശ്യമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും രണ്ട് ഫലങ്ങളെ ഒന്നായി സംയോജിപ്പിക്കുന്നത് പതിവ് കാര്യമായി ഉപയോഗിക്കരുത് ഒരു കോഴ്സിനായി നിങ്ങൾ ആറ് ഫലങ്ങൾ എഴുതേണ്ടതുണ്ടെന്നും നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലെന്നും കരുതുക രണ്ട് ആക്ഷൻ ക്രിയകൾ ഉപയോഗിക്കുകയും ഒരൊറ്റ വാചകം എഴുതുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് അവ സംയോജിപ്പിച്ച് എഴുതാൻ കഴിയില്ല അതിനാൽ രണ്ട് സിഒകളെ ഒന്നായി സംയോജിപ്പിക്കുന്നതിന് ഇത് ഒരു ആർട്ടിഫാക്റ്റായി ഉപയോഗിക്കരുത് ഇനി നമുക്ക് ഒരു ഉദാഹരണം നോക്കാം "Prepare and explain financial statement using fund flow and cash flow" അഥവാ "ഫണ്ട് ഫ്ലോയും പണമൊഴുക്കും ഉപയോഗിച്ച് സാമ്പത്തിക പ്രസ്താവന തയ്യാറാക്കി വിശദീകരിക്കുക" ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫണ്ട് ഫ്ലോയും പണമൊഴുക്കും ഉപയോഗിക്കുന്നു എന്നതാണ് നിബന്ധന വിജ്ഞാന ഘടകം സാമ്പത്തിക പ്രസ്താവനയാണ് നൽകിയ ഡാറ്റയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഒരു സാമ്പത്തിക പ്രസ്താവന തയ്യാറാക്കേണ്ടതുണ്ട് അതും ആവശ്യമായ ഔട്ട്കം ആണ് അത് നേടേണ്ടതുണ്ട് എന്നിട്ട് അത് എഴുതിയ ശേഷം ധനകാര്യ പ്രസ്താവനയിലൂടെ ഓർഗനൈസേഷന്റെ പ്രകടനം വിശദീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ രണ്ടും തുല്യ പ്രാധാന്യമുള്ളവയാണ് അവ ഒരേ വസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരേ അറിവ് തയ്യാറാക്കലും വിശദീകരണവും ഒരുപോലെ പ്രധാനമാണ് രണ്ട് പ്രക്രിയകളും ഒരേ വിജ്ഞാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഫണ്ട് ഫ്ലോയും പണമൊഴുക്കും ഉപയോഗിച്ച് സാമ്പത്തിക പ്രസ്താവന എഴുതണം അതിനാൽ രണ്ട് ആക്ഷൻ ക്രിയകൾ ഉപയോഗിക്കുന്നത് ഒരു പതിവ് എന്നതിലുപരി ഒരു അപവാദമായി പരിഗണിക്കുക പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലെ ദ്രാവക പ്രവാഹവുമായി ബന്ധപ്പെട്ട വലിയതും ചെറുതുമായ നഷ്ടങ്ങൾ കണക്കാക്കുക സ്റ്റെമെന്റ്റ് ആണ് ഇതിലെ ഘടകങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ഷൻ കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അപ്ലൈ എന്ന കോഗ്നിറ്റീവ് പ്രക്രിയയിൽ ഉൾപ്പെടുന്നു നോലെഡ്ജ് പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലെ ദ്രാവക പ്രവാഹവുമായി ബന്ധപ്പെട്ട വലിയതും ചെറുതുമായ നഷ്ടങ്ങളാണ് ഇവിടെ നിങ്ങൾ കമ്പ്യൂട്ടിംഗ് നടത്തുന്നു അതിനാൽ പ്രോസെഡ്യൂറൽ നോലെഡ്ജ് ഉണ്ട് അതിൽ കോൺസെപ്റ്റസും ഉണ്ട് അതിനാൽ ഇത് കോൺസെപ്റ്റുവൽ പിന്നെ പ്രോസെഡ്യൂറൽ നോലെഡ്ജ് ആണ് നമ്മൾ ഒരു കണ്ടിഷൻസും ഏർപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഒരു ക്രൈറ്റീരിയയും ഏർപ്പെടുത്തിയിട്ടില്ല മറ്റൊരു സാമ്പിൾ ബലപ്രയോഗത്തിനും ത്വരണത്തിനും വിധേയമായ കർശനമായ വസ്തുക്കളുടെ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ ചലനാത്മക അസന്തുലിതാവസ്ഥ നിർണ്ണയിക്കുക ഇപ്പോൾ ആക്ഷൻ "നിർണ്ണയിക്കുക" അത് ഇപ്പോഴും അപ്ലൈ ആണ് നോലെഡ്ജ് ചലനാത്മക അസന്തുലിതാവസ്ഥയാണ് ചലനാത്മക അസന്തുലിതാവസ്ഥ നിർണ്ണയിക്കുക എന്നതാണ് പ്രധാന പ്രശ്നം കോൺസെപ്റ്റുവൽ കൂടാതെ പ്രോസെഡ്യൂറൽ കർശനമായ വസ്തുക്കളുടെ മെക്കാനിക്കൽ സംവിധാനമാണ് കണ്ടിഷൻ ആയി നൽകി ഇരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഒരു ക്രൈറ്റീരിയനുമില്ല മൂന്നാമത്തെ സാമ്പിൾ ഹീവ് പിഗ് സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് ഹഡൂപ്പ് ക്ലസ്റ്ററിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുക ആക്ഷൻ എന്നത് ഒരു പ്രക്രിയയാണ് നിങ്ങൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നു ആ ഡാറ്റ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുന്നു അതിനാൽ ഇത് അപ്ലൈ ആണ് ഹഡൂപ്പ് ക്ലസ്റ്ററിലെ ഡാറ്റയാണ് നോലെഡ്ജ് അതിനാൽ അത് കോൺസെപ്റ്റുവൽ കൂടാതെ പ്രോസെഡ്യൂറൽ ആണ് നിങ്ങൾ ഹൈവ് പിഗ് സ്ക്രിപ്റ്റുകൾ ഉപയോഗിക്കണം അതാണ് കണ്ടിഷൻ ക്രൈറ്റീരിയൻ ഒന്നുമില്ല മറ്റൊരു സാമ്പിൾ ടിന ടിഐ ഉപയോഗിച്ചുള്ള സിമുലേഷനിലൂടെ വോൾട്ടേജ് നിയന്ത്രിത ഓസിലേറ്ററുകളിലെ എല്ലാ പാരാമീറ്ററുകളുടെയും ഫലം മനസ്സിലാക്കുക പ്രവർത്തന ക്രിയ തന്നെ പറയുന്നതുപോലെ ഇപ്പോൾ ആക്ഷൻ അണ്ടർസ്റ്റാൻഡ് ആണ് വോൾട്ടേജ് നിയന്ത്രിത ഓസിലേറ്ററുകളിലെ എല്ലാ പാരാമീറ്ററുകളുടെയും ഫലമാണ് നോലെഡ്ജ് വോൾട്ടേജ് നിയന്ത്രിത ഓസിലേറ്റർ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണ് അതിനാൽ ആ പരിധിവരെ അത്തരത്തിലുള്ളവ പഠിക്കുന്നതിനുള്ള പ്രധാന ഉപകരണം ഒരു ലീനിയർ സർക്യൂട്ടിലേക്ക് സിമുലേഷനാണ് അനലോഗ് സർക്യൂട്ടുകൾ അനുകരിക്കാനുള്ള സോഫ്റ്റ്വെയർ പാക്കേജായ ടിന ടിഐ ഉപയോഗിച്ച് നിങ്ങൾ ആ സിമുലേഷൻ ചെയ്യണം അതിനാൽ അത് സാമ്പിൾ 4 ആണ് ഈ നാല് സാമ്പിളുകളും കോഴ്സ് ഔട്ട്കം സ്റ്റെമെന്റ്സ് സ്താവനകളുടെ ചില സവിശേഷതകൾ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു പക്ഷേ പിന്നീടുള്ള യൂണിറ്റിൽ നാം ഇതുമായി ബന്ധപെട്ടു കൂടുതൽ പര്യവേക്ഷണം നടത്തും ഇപ്പോൾ എഴുതിയ ശേഷം ഈ സിഒകളെ എബിവി പട്ടികയിൽ കണ്ടെത്തണം എബിവി ഇതിനെ ഞങ്ങൾ ആൻഡേഴ്സൺ ബ്ലൂം വിൻസെന്റി ടാക്സോണമി ടേബിൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് വിജ്ഞാന വിഭാഗങ്ങളുണ്ട് അതിനാൽ സാമ്പിളുകൾ ഇവിടെ രണ്ട് വിഭാഗങ്ങളിൽ വരും എസ് 1 എസ് 2 എസ് 3 മൂന്ന് സാമ്പിളുകൾ കൺസെപ്ച്വൽ അപ്ലൈ പ്രൊസീഡ്യൂറൽ എന്നിവയിൽ സ്ഥിതിചെയ്യുന്നു സാമ്പിൾ 4 അണ്ടർസ്റ്റാൻഡിനും കൺസെപ്ച്വലിനും കീഴിൽ വരുന്നു അതാണ് ടാക്സോണമി പട്ടികയിൽ നിങ്ങൾ CO കൾ കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ അവ എങ്ങനെ കണ്ടെത്തും കോഴ്സ് സയൻസസ് ഹ്യുമാനിറ്റീസ് സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നിവയിലാണെങ്കിൽ ആൻഡേഴ്സൺ ബ്ലൂം ടാക്സോണമി ടേബിളിൽ അതായതു 6 ബൈ 4 ടേബിളിൽ കണ്ടെത്താം എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് സയൻസസ് കോഴ്സുകളിൽ 6 ബൈ 8 ടേബിളുകളുള്ള എബിവി ടാക്സോണമി പട്ടികയിൽ സിഒകൾ കണ്ടെത്തുന്നു അതാണ് വ്യത്യാസം ഇപ്പോൾ നിലവിലെ ധാരണയെ അടിസ്ഥാനമാക്കി കോഴ്സ് ഔട്ട്കംസിന്റെ കൂടുതൽ സവിശേഷതകൾ നമ്മൾ കാണാൻ പോകുന്നുണ്ടെങ്കിലും സിഒ അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കംസിനെക്കുറിച്ചുള്ള നിലവിലെ ധാരണയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് പരിചിതമായ കോഴ്സുകളിൽ നിന്ന് അവതരിപ്പിച്ച ഘടനയിൽ മൂന്ന് കോഴ്സ് ഔട്ട്കംസ് എഴുതുക എബിവി ടാക്സോണമി പട്ടികയിൽ അവ കണ്ടെത്തുക നിങ്ങളിൽ ഭൂരിഭാഗവും എഞ്ചിനീയറിംഗ് അധ്യാപകരായതിനാൽ നിങ്ങൾക്ക് പരിചയമുള്ളതോ ഇതിനകം പഠിപ്പിച്ചതോ ആയ ഒരു കോഴ്സ് അല്ലെങ്കിൽ രണ്ടെണ്ണം തിരഞ്ഞെടുത്ത് മൂന്ന് കോഴ്സ് ഔട്ട്കംസ് എഴുതാൻ ശ്രമിക്കുക എന്നാൽ കോഴ്സ് ഫലങ്ങളുടെ അധിക സവിശേഷതകൾ അടുത്ത മൊഡ്യൂളിൽ അടുത്ത യൂണിറ്റിൽ നമ്മൾ പര്യവേക്ഷണം ചെയ്യും അതിനാൽ അടുത്ത യൂണിറ്റിൽ അതിന്റെ പ്രധാന സവിശേഷത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച ഏതെങ്കിലും കോഴ്സ് ഔട്ട്കംസ് ഉണ്ടെങ്കിൽ പിശകുകൾ തിരിച്ചറിയുകയാണ് കാരണം കോഴ്സ് ഫലങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ നിരവധി ഓപ്പറേറ്റ് പിശകുകൾ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം മെശറബിലിറ്റി ആണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി